ചുരുങ്ങിയ പാതകൾക്കും മിനിമം കോസ്ററ് സ്പാനിങ് ട്രീസിനായി അൽഗോരിതങ്ങളും വെയ്റ്റഡ് ഗ്രാഫുകളും നോക്കുമ്പോൾ അപ്ഡേറ്റുകൾ കാര്യക്ഷമമാക്കുന്നതിന് ഞങ്ങൾക്ക് ചില ഡാറ്റാ ഘടനകൾ ഉപയോഗിക്കേണ്ടിവന്നു അതിനാൽ ആ സമയത്ത് ഈ ഡാറ്റ ഘടനകൾ ലഭ്യമാണെന്ന് ഞങ്ങൾ അനുമാനിക്കുകയും ഈ അൽഗോരിതങ്ങളുടെ വിശകലനം നിർണ്ണയിക്കാൻ ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ഇനി നമുക്ക് ഈ ഡാറ്റ ഘടനകൾ നോക്കാം അതിനാൽ മിനിമം കോസ്ററ് സ്പാനിങ് ട്രീസിനായി ക്രൂസ്കലിന്റെ അൽഗോരിതത്തിൽ ഉപയോഗിക്കുന്ന യൂണിയൻ ഫൈൻഡ് ഡാറ്റാ ഘടനയിൽ ഞങ്ങൾ ആരംഭിക്കുന്നു ക്രുസ്കലിന്റെ അൽഗോരിതം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഓർക്കുക ചെലവിന്റെ ആരോഹണ ക്രമത്തിൽ ഞങ്ങൾ അറ്റങ്ങൾ ക്രമീകരിക്കുകയും ഈ ക്രമത്തിൽ ഞങ്ങൾ അറ്റങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഓരോ എഡ്ജസ് ഞങ്ങൾ എടുക്കുന്നു ഇത് ഒരു സൈക്കിൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അത് ട്രീസിൽ ചേർക്കുകയും ഒരു സൈക്കിൾ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇതുവരെ ഉള്ള ഘടകങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നതിനും അവസാന പോയിന്റുകൾ വ്യത്യസ്ത ഘടകങ്ങളുടെ വരികൾ പരിശോധിക്കുന്നതിനും തുല്യമാണെന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു അതിനാൽ u v എന്നിവ നിലവിൽ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ എഡ്ജ് u v ചേർക്കാവുന്നതാണ് അവ ഒരേ ഘടകത്തിലല്ല ഇപ്പോൾ എഡ്ജ് കൂട്ടിച്ചേർത്തതിന്റെ ഫലമായി രണ്ട് ഘടകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങൾ ആ രണ്ട് ഘടകങ്ങളും ലയിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ക്രുസ്കലിന്റെ അൽഗോരിതം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിലെ ബോട്ടിൽ നെക്ക് ഒരു ഘടകത്തിന്റെ ഭാഗങ്ങൾ പരിശോധിക്കുന്നതിനും ഈ ഘടകങ്ങളുടെ ശേഖരത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്നതിനും അവയെ ബന്ധിപ്പിച്ച് ഒരു എഡ്ജ് ചേർക്കുമ്പോഴെല്ലാം രണ്ട് ഘടകങ്ങളെ ലയിപ്പിക്കുന്നതിനുമാണ് ഒരു സെറ്റിന്റെ പാർട്ടീഷൻ നിലനിർത്തുകയും ഈ പാർട്ടീഷൻ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഞങ്ങൾ പരിഹരിക്കാൻ അവകാശപ്പെട്ട പ്രശ്നം അതിനാൽ വിഭജനം എന്നതിനർത്ഥം ഞങ്ങൾക്ക് ഒരു സെറ്റ് ഉണ്ടെന്നും അത് ചില വിഭജന ഉപവിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടുവെന്നും ആണ് അതിനാൽ ഈ ഉപവിഭാഗങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നില്ല കൂടാതെ എല്ലാ ഘടകങ്ങളും ഇവയിലേതല്ല അതിനാൽ ഒന്നിലധികം മൂലകങ്ങളുള്ള ചിലത് ഉണ്ടായിരിക്കാം ഓരോ ഘടകവും കൃത്യമായി ഒരു പാർട്ടീഷനുമായി നിയോഗിക്കപ്പെടുന്നു ഞങ്ങൾ ഈ പാർട്ടീഷനുകളെ ഘടകങ്ങളും എന്ന് വിളിക്കുന്നു അതിനാൽ ക്രുസ്കലിന്റെ അൽഗോരിതം മറ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ മിക്കപ്പോഴും നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു വിഭജനത്തോടെയാണ് അത് അവസാനിച്ചു അതിനാൽ ഒരു വിഭജനത്തിൽ നമുക്ക് ഒരിക്കലും രണ്ട് ഘടകങ്ങൾ ഉണ്ടാകണമെന്നില്ല ഈ ക്രമീകരണത്തെ ഞങ്ങൾ ഡാറ്റ സ്ട്രക്ചേർ എന്ന് വിളിക്കും അതിനാൽ ഞങ്ങൾ ഇതിനെ യൂണിയൻ ഫൈൻഡ് എന്ന് വിളിക്കും കാരണം ഈ ഡാറ്റ സ്ട്രക്ച്ചറിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളെ കണ്ടെത്തൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഇതൊരു അന്വേഷണ പ്രവർത്തനമാണ് ഇത് ഒരു ഘടകം നൽകിയിരിക്കുന്നു ശരിയാണ് ഇത് നിലവിൽ ഏത് ഘടകത്തിന്റേതാണെന്ന് എന്നെ അറിയിക്കൂ ഇത് ഡാറ്റ ഘടന അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു അപ്ഡേറ്റാണ് ഇത് ഡാറ്റ ഘടനയെക്കുറിച്ച് അന്വേഷിക്കുകയും ഈ പാർട്ടീഷനുകളിൽ ഏതാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾക്ക് രണ്ട് പാർട്ടീഷനുകൾ എടുക്കാൻ അനുവദിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട് നമുക്ക് ഈ രണ്ട് പാർട്ടീഷനുകൾ എടുത്ത് ഇപ്പോൾ അവയെ ഒറ്റ പാർട്ടീഷനായി സംയോജിപ്പിക്കാം അതിനാൽ ഞങ്ങൾ ഈ യൂണിയനെ വിളിക്കുന്നു പാർട്ടീഷനുകൾ ഒന്നിച്ച് ലയിപ്പിക്കുന്ന ഒരു യൂണിയൻ പ്രവർത്തനം ഉണ്ട് ഒരു പാർട്ടീഷൻ ഒരു ഘടകത്തിന്റേതാണെന്ന് പറയുന്ന ട്രാക്ക് സൂക്ഷിക്കേണ്ട ഒരു കണ്ടെത്തൽ പ്രവർത്തനം ഉണ്ട് ഈ രണ്ട് ഓപ്പറേഷൻ യൂണിയനും കണ്ടെത്തലും കാരണം ഇത് യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടീഷനുകളുമായി ലയിപ്പിക്കുമായിരുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമായി പിന്തുണയ്ക്കുന്ന ഡാറ്റാ ഘടനയെ ഞങ്ങൾ ഒരു യൂണിയൻ കണ്ടെത്തുന്നു ഈ യൂണിയൻ കണ്ടെത്തലിന്റെ പ്രാരംഭം ഒരു സെറ്റ് എടുത്ത് അതിനെ തകർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇതിന് n ഘടകങ്ങളുള്ള n കോംപോണേന്റ്സ് വരെ ഓരോ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ആദ്യ പ്രശ്നം ഘടകങ്ങളുടെ പേരുകളാണ് ഈ ഘടകങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് ഇത് ഒരു ലളിതമായ പരിഹാരമാണ് സെറ്റിന്റെ ഘടകങ്ങൾ പേരുകളായി ഉപയോഗിക്കാൻ ഞങ്ങൾ കണ്ടെത്തും ശരിയാണ് അതിനാൽ ഞങ്ങൾ എന്ത് പേരുകളാണ് നൽകുന്നത് എന്നത് പ്രശ്നമല്ല S t അല്ലെങ്കിൽ u v എന്നിവ ഒരേ ഘടകത്തിന്റേതാണോ എന്ന് നമുക്ക് ഇടയ്ക്കിടെ പരിശോധിക്കാൻ കഴിയണം അതിനാൽ u കണ്ടെത്തുന്നത് v കണ്ടെത്തുന്നതിന് തുല്യമാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ u കണ്ടെത്തുന്നതും v കണ്ടെത്തുന്നതും എങ്ങനെ ലേബൽ ചെയ്യുന്നു എന്നതിന്റെ കൃത്യമായ തിരഞ്ഞെടുപ്പ് പ്രശ്നമല്ല അതിനാൽ രണ്ട് ലേബലുകൾ ഒന്നുതന്നെയാണോ വ്യത്യസ്തമാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നിടത്തോളം കാലം അവയിൽ നിന്ന് ലേബലുകളുടെ നിർമ്മാതാക്കൾക്ക് പകരം മൂലകങ്ങൾ സ്വയം സജ്ജമാക്കാൻ ഞങ്ങൾ ലേബലുകൾ തിരഞ്ഞെടുക്കും അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു എല്ലാ ഘടകങ്ങളും ഒരൊറ്റ വിഭജനത്തിലാണ് അതിനാൽ എനിക്ക് s t u അടങ്ങുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് കരുതുക അപ്പോൾ എനിക്ക് തുടക്കത്തിൽ മൂന്ന് പാർട്ടീഷനുകൾ ഉണ്ടാകും ഒന്ന് s അടങ്ങുന്ന ഒന്ന് t അടങ്ങുന്ന ഒന്ന് u എന്നിവ അടങ്ങുന്ന ഒന്ന് ഈ പാർട്ടീഷൻ ഞങ്ങൾ എന്താണ് വിളിക്കുന്നത് എന്നതാണ് നിങ്ങൾക്ക് ചോദ്യം ഞങ്ങൾ അവരെ ഒരേ കാര്യം വിളിക്കുന്നു ഞങ്ങൾ ഈ പാർട്ടീഷൻ s എന്ന് വിളിക്കുന്നു ഇതിനെ പാർട്ടീഷൻ t എന്ന് വിളിക്കുകയും ഇതിനെ പാർട്ടീഷൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നു അതിനാൽ ചിലപ്പോൾ മൂലകത്തിന്റെ പേരുകൾ പാർട്ടീഷനുകളുടെ പേരുകളെ സൂചിപ്പിക്കും ചിലപ്പോൾ അവർ മൂലകങ്ങളുടെ പേരുകൾ തന്നെ പരാമർശിക്കും ഇനി നമ്മൾ ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഉദാഹരണത്തിന് ഈ രണ്ട് പാർട്ടീഷനുകളും ഞങ്ങൾ ലയിപ്പിക്കുന്നുവെന്ന് കരുതുക അപ്പോൾ ലേബൽ ഒന്നുതന്നെയായിരിക്കണം അതിനാൽ മൂലകം മാറുന്നില്ല പക്ഷേ ഒരുപക്ഷേ നമുക്ക് സെറ്റ് ലേബൽ യു എടുത്ത് ടി ആക്കാം അതിനാൽ ഇപ്പോൾ u എന്ന ഘടകവും t എന്ന ഘടകവും പാർട്ടീഷൻ ലേബലായ t യിൽ പെടുന്നു അതിനാൽ ഞങ്ങൾ ലേബലുകളുടെ കൂട്ടമായി ഉപയോഗിക്കുന്നു മൂലകങ്ങളുടെ പേരുകൾ പ്രത്യേകിച്ചും നിങ്ങൾ ഗ്രാഫുകൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മൂലകങ്ങൾ ലേക്കുള്ള വേർട്സ്ആണ് കൂടാതെ ഞങ്ങളുടെ സെറ്റിൽ n വെർട്ടിസ്സ് ഉണ്ടെന്ന് ഞങ്ങൾ ഇതിനകം തന്നെ കൺവെൻഷൻ നടത്തിയിരുന്നു ഞങ്ങൾ അവയെ 1 മുതൽ n വരെ വിളിക്കുന്നു അതിനാൽ മൂലകങ്ങളുടെ കൂട്ടം 1 മുതൽ n വരെയാണ് ഉറവിടങ്ങൾ ഘടകങ്ങളുടെ കൂട്ടമാണ് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിന്റെ ട്രാക്ക് സൂക്ഷിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഒരു അറേ സജ്ജീകരിക്കുക എന്നതാണ് അതിനാൽ ഞങ്ങൾ ഘടിപ്പിക്കുന്ന ഒരു ശ്രേണി ഉണ്ട് ഈ ശ്രേണി എന്ത് പറയും ഓരോ വേർട്സ്സിനും അത് ഏത് ഘടകത്തിന്റേതാണെന്ന് അവസാനിപ്പിക്കാനുള്ള നോഡുകളാണെന്ന് ഇത് പറയും അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു ഓരോ ഘടകത്തിലും ഒരു വെർട്ടിസ്സ് അടങ്ങിയിരിക്കും അതിനാൽ നമുക്ക് ഒരു വെർട്ടിസ്സ് n ഒരു വെർട്ടിസ്സ് I കോംപോണേന്റ് I എന്നിവ പൊതുവേ കുറച്ച് സമയത്തിന് ശേഷം ഇവ മാറിയേക്കാം ഇത് ഘടകം 3 ലേക്ക് പോയിരിക്കാം ഘടകം 7 ലേക്ക് പോയിരിക്കാം അതിനാൽ കാലക്രമേണ യൂണിയൻ പ്രവർത്തനങ്ങൾ കാരണം കൂടുതൽ ഘടകങ്ങൾക്ക് മാറ്റം വരുന്നു അതിനാൽ ഞങ്ങൾ u കണ്ടെത്തുമ്പോൾ ഘടകത്തിന്റെ നിലവിലെ മൂല്യം തിരികെ നൽകുക യൂണിയനായി ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് നിർമ്മിക്കേണ്ടതുണ്ട് k k പ്രൈം എന്നീ രണ്ട് ഘടകങ്ങൾക്കും ഒരേ ലേബൽ ഉണ്ട് അതിനാൽ ഒരു പുതിയ ലേബൽ കണ്ടുപിടിക്കുന്നതിനുപകരം ഞങ്ങൾ k അല്ലെങ്കിൽ k പ്രൈം തിരഞ്ഞെടുക്കും ഈ സാഹചര്യത്തിൽ ഞങ്ങൾ k പ്രൈം തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഞങ്ങൾ എന്തുചെയ്യും നമ്മൾ കടന്നുപോകും ഒരു k കാണുന്നിടത്തെല്ലാം ഞങ്ങൾ ഒരു k പ്രൈം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ ഈ ശ്രേണിയിലെ k ഫോമിന്റെ ഓരോ എൻട്രിയും ഞങ്ങൾ വ്യവസ്ഥാപിതമായി k പ്രൈമിലേക്ക് മാറ്റും അതിനാൽ ഈ എല്ലാ ഘടക മൂല്യങ്ങൾക്കും ശേഷം ഞങ്ങൾ k അല്ലെങ്കിൽ ഇപ്പോൾ k പ്രൈം ആയി തിരഞ്ഞെടുക്കുന്നു എല്ലാ വെർച്വൽ k പ്രൈമും k പ്രൈം ആയി തുടരും അതിനാൽ ഫലപ്രദമായി രണ്ട് ഘടകങ്ങളും ലയിപ്പിച്ചു അതിനാൽ ഇത് യൂണിയൻ കണ്ടെത്തലിന്റെ വളരെ ലളിതമായ നടപ്പാക്കലാണ് അതിനാൽ എന്തുകൊണ്ടാണ് ഇത് സങ്കീർണ്ണമായ വീക്ഷണകോണിൽ നിന്ന് വളരെ നല്ല നടപ്പാക്കൽ അല്ലാത്തതെന്ന് നമുക്ക് ശ്രമിച്ചു മനസ്സിലാക്കാം വ്യക്തമായും പ്രാരംഭ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഒരിക്കൽ അറേ സ്കാൻ ചെയ്യണം തുടർന്ന് I ന്റെ ഘടകം I എന്ന മൂല്യമായി ആരംഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതിന് ഓർഡർ n ടൈം എടുക്കും അതുപോലെ ഒരു മൂലകം കണ്ടെത്തുന്നത് ഫലപ്രദമാണ് നമ്മൾ അറേയിലെ i ഘടകം നോക്കേണ്ടതാണ് ഏതൊരു മൂലകവും ആക്സസ് ചെയ്യുന്ന നിരയിൽ സ്ഥിരമായ സമയം എടുക്കുമെന്ന് ഓർക്കുക അതിനാൽ ഇതൊരു കാര്യക്ഷമമായ പ്രവർത്തനമാണ് ഇതിന് സ്ഥിരമായ സമയം ആവശ്യമാണ് മറുവശത്ത് യൂണിയൻ ഒരു പ്രശ്നമാണ് കാരണം ഞങ്ങൾ യൂണിയനെ വിവരിച്ച രീതി അതിന്റെ ഘടകം k ആണോ എന്നും k ഉപകരണത്തിന്റെ ഘടകത്തിന്റെ ഘടകമാണെങ്കിൽ ഞങ്ങൾ അത് k പ്രൈം അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ് അതിനാൽ നിലവിൽ k k പ്രൈം ഘടകങ്ങൾ എങ്ങനെയാണെന്നത് പരിഗണിക്കാതെ ഞങ്ങൾ എല്ലാ ഘടകങ്ങളും സ്കാൻ ചെയ്യുകയും k മുതൽ k പ്രൈം വരെയുള്ളവ അപ്ഡേറ്റ് ചെയ്യുകയും വേണം അതിനാൽ നിലവിലെ പാർട്ടീഷൻ സെറ്റുകളായി k k പ്രൈം വലുപ്പത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു യൂണിയൻ പ്രവർത്തനത്തിന് ഇത് ഓർഡർ n ടൈം എടുക്കും അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് m തവണ n ക്രമീകരിക്കും അത്തരം പ്രവർത്തനങ്ങൾ n ആണെങ്കിൽ അത് n സമചതുരമായിരിക്കും അതിനാൽ ഒരു ശ്രേണി m പ്രവർത്തനം അവയിൽ ഓരോന്നിനും ക്രമം എടുക്കും ഞങ്ങൾ ഇത് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് യൂണിയൻ പ്രവർത്തനത്തിന്റെ വേഗത മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു നമുക്ക് കുറച്ചുകൂടി വിപുലമായ പ്രാതിനിധ്യം ഉണ്ടാക്കാം അതിനാൽ ഈ ശ്രേണി ഘടകം മുമ്പത്തെപ്പോലെ ഞങ്ങൾ സൂക്ഷിക്കുന്നു ഇത് ഓരോ വേർട്സ്സിനും I ഏത് ഘടകത്തിന്റേതാണെന്ന് പറയുന്നു മുമ്പത്തെ ഘടകങ്ങൾ ആദ്യം 1 മുതൽ n വരെ ലേബൽ ചെയ്തിരിക്കുന്നു ഒരേ സെറ്റിൽ നിന്നാണ് പേരുകൾ വരച്ചത് അതിനാൽ അടിസ്ഥാനപരമായി 1 മുതൽ n വരെ 1 മുതൽ n വരെ വെർട്ടെക്സും ഉണ്ട് അല്ലെങ്കിൽ പേരുകളും ഘടകങ്ങളാണ് തുടക്കത്തിൽ I ന്റെ ഘടകം വെർട്ടെക്സ് ആണ് I ഒരു ഘടക സമയമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക പട്ടികയുണ്ട് അതിനാൽ ഓരോ ഘടകത്തിനും നിലവിൽ ഞങ്ങൾ ഒരു ലിസ്റ്റ് സൂക്ഷിക്കും അതിനാൽ തുടക്കത്തിൽ ലിസ്റ്റ് ഘടകം 1 എന്നത് വെർട്ടെക്സ് 1 ഘടകമാണ് 2 എന്നത് വെർട്ടെക്സ് 2 മുതലായവയാണ് എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ ഘടകം 4 വെർട്ടെക്സ് 1 2 4 7 എന്നിവ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് സാഹചര്യം ഉണ്ടായേക്കാം അതിനാൽ ഓരോ ഘടകത്തിനും അത് ഉൾപ്പെടുന്ന വെർട്ടക്സിന്റെ പട്ടിക ഞങ്ങളുടെ പക്കലുണ്ട് കൂടാതെ ഞങ്ങൾ വലുപ്പം പ്രത്യേകം നിരീക്ഷിക്കുകയും ചെയ്യും അതിനാൽ ഈ ഘടകത്തിന്റെ വലുപ്പം 4 ആണെന്നും ഈ ഘടകത്തിന്റെ വലുപ്പം 1 എന്നും ഞങ്ങൾ പറയും അതിനാൽ ഞങ്ങൾക്ക് രണ്ട് സഹായ കാര്യങ്ങൾ ഉണ്ട് ഓരോ ഘടകത്തിനും ഞങ്ങൾ അതിൻറെ അംഗങ്ങളുടെ പട്ടിക വ്യക്തമായി സൂക്ഷിക്കുന്നു കൂടാതെ ഈ പട്ടികയുടെ വലുപ്പവും ഞങ്ങൾ സൂക്ഷിക്കുന്നു അതിനാൽ തുടക്കത്തിൽ ഏത് സമയത്തും ഓരോ ഘടകങ്ങളും എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം തീർച്ചയായും വലുപ്പം 1 ആണ് ഞങ്ങൾക്ക് യൂണിയൻ കണ്ടെത്തേണ്ടിവരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ I എന്നതിന് തുല്യമായ ഘടകം ഞങ്ങൾ പറഞ്ഞു തുടർന്ന് ലിസ്റ്റിലെ അംഗങ്ങൾ ഞാൻ ഘടകമാണെന്ന് ഞാൻ ആരംഭിക്കുന്നു മുമ്പത്തെപ്പോലെ തന്നെ ഞങ്ങൾ ഘടകം നോക്കുകയും മൂല്യം തിരികെ നൽകുകയും വേണം രണ്ട് യൂണിയനുകളെ സൂചിപ്പിക്കുന്ന ഘടകം മുമ്പത്തേതിന് സമാനമാണ് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് കെയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാം അകത്ത് കെ പ്രൈമിലേക്ക് ചൂണ്ടിക്കാണിക്കുക എന്നതാണ് അതിനാൽ k ആയിരിക്കേണ്ട ഘടകത്തിലെ ഓരോ എൻട്രിയും k പ്രൈം എന്നാൽ ഇപ്പോൾ നമുക്ക് അംഗങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ 1 മുതൽ n വരെയുള്ള എല്ലാ ഘടകങ്ങളും ഞങ്ങൾ സ്കാൻ ചെയ്യേണ്ടതില്ല K അംഗങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ ഘടകങ്ങളും നമുക്ക് നോക്കാനും അതിന്റെ മൂല്യം k പ്രൈമിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനും കഴിയും അതിനാൽ ഇത് ഒരു സമ്പാദ്യമാണ് നമുക്ക് ഇനി 1 മുതൽ n വരെ പോകേണ്ടതില്ല സെറ്റ് കെയിൽ ഉൾപ്പെടുന്ന അംഗത്തെ മാത്രമാണ് ഞങ്ങൾ കൃത്യമായി നോക്കിയത് അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം K യിലെ അംഗങ്ങൾ ഇപ്പോൾ k പ്രൈമുകളിൽ അംഗങ്ങളായി അതിനാൽ ഞങ്ങൾ ഈ രണ്ട് ലിസ്റ്റുകളും ലയിപ്പിക്കും ഇപ്പോൾ ഈ രണ്ട് ലിസ്റ്റുകളും അടുക്കിയിരിക്കുന്ന ക്രമത്തിലാണെന്ന് ഓർക്കുക അവ എല്ലായ്പ്പോഴും മൂലകങ്ങളുടെ പേരുകളുടെ ആരോഹണ ക്രമത്തിൽ സൂക്ഷിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ലയിപ്പിക്കുന്ന തരത്തിൽ ഞങ്ങൾ ചെയ്തതുപോലെ രണ്ട് അടുക്കിയിട്ടുള്ള ലിസ്റ്റുകൾ ലയിപ്പിക്കുന്നതിന് അന്തിമ പട്ടികയുടെ ദൈർഘ്യത്തിന് ആനുപാതികമായി സമയം എടുക്കും അതിനാൽ k k പ്രൈം ഘടകങ്ങളുടെ വലുപ്പത്തിന് ആനുപാതികമായി ഇത് ഒരു രേഖീയ സമയ കാര്യമായിരിക്കും അവസാനമായി ഇപ്പോൾ നമുക്ക് ഒരു പുതിയ ഘടകം ഉണ്ട് അത് മുമ്പത്തെ ഉപവിഭാഗമാണ് അതിനാൽ അതിന്റെ വലുപ്പം തീർച്ചയായും മുമ്പത്തെ രണ്ടിന്റെ ആകെത്തുകയാണ് ഇവ പാർട്ടീഷനുകളാണ് ഒരു ഘടകവും ആവർത്തിക്കപ്പെട്ടില്ല അതിനാൽ വിഭജനത്തിൽ ചേരുന്ന എല്ലാ ഘടകങ്ങളും പുതിയതാണ് അതിനാൽ k പ്രൈമിന്റെ വലുപ്പം കൃത്യമായി k യുടെ വലിപ്പവും പഴയ k പ്രൈമിന്റെ വലുപ്പവുമാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നത് അതിനാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഘടകം അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അതിന്റെ വലുപ്പത്തിന് ആനുപാതികമാണ് ഘടകം അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് k ന്റെ ഓർഡറുകൾ എടുക്കുന്നു ഇത് ക്രമവും നടപടികളും സ്വീകരിക്കുന്നില്ല 1 മുതൽ n വരെയുള്ള എല്ലാ വെർട്ടെക്സിലൂടെയും നമ്മൾ കടന്നുപോകേണ്ടതില്ല K അംഗങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഘടകങ്ങൾ നമുക്ക് വ്യക്തമായി പരിശോധിക്കാനും ആ മൂല്യങ്ങൾ പുതുക്കാനും മാത്രമേ കഴിയൂ എന്നാൽ k യുടെ വലിപ്പം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് k എന്നത് k പ്രൈം ആണോ അതോ k പ്രൈം k ആണോ എന്ന് വീണ്ടും ലേബൽ ചെയ്യണോ എന്ന് നമുക്ക് നിർണ്ണയിക്കാനാകും K k പ്രൈം എന്നിവ ലയിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു ചോയ്സ് ഉണ്ടെന്ന് ഓർക്കുക എല്ലാ ഘടകങ്ങളും ഒരേ ഘടകത്തിന്റെ ഭാഗമാകാൻ പോകുന്നു അതിനാൽ പുതിയ ഘടകം ഒന്നുകിൽ k എന്ന് വിളിക്കും അല്ലെങ്കിൽ k പ്രൈം എന്ന് വിളിക്കും ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ തന്ത്രം വലുതായിട്ടുളവയുടെ പേര് നിലനിർത്തുക എന്നതാണ് അതിനാൽ k പ്രൈമിന്റെ വലുപ്പത്തേക്കാൾ k യുടെ വലുപ്പം ചെറുതാണ് അതിനർത്ഥം k പ്രൈമിന് നിലവിൽ kയിൽ കൂടുതൽ അംഗങ്ങളുണ്ട് അപ്പോൾ അവസാന സെറ്റിന്റെ ഒരു നാമമായി ഞങ്ങൾ k പ്രൈം സൂക്ഷിക്കും അതിനാൽ ഞങ്ങൾ എല്ലാ കേസുകളും മാറ്റിസ്ഥാപിക്കും ഞങ്ങൾ എല്ലാ k പ്രൈമുകളും k ആയി മാറ്റും അതിനാൽ ചെറിയ സെറ്റ് അതിന്റെ പേര് മാറ്റുകയും വലിയ സെറ്റ് അതിന്റെ പേര് നിലനിർത്തുകയും ചെയ്യുന്നു ഒരു വ്യക്തിഗത യൂണിയൻ പ്രവർത്തനത്തിന്റെ ഏറ്റവും മോശം സാഹചര്യത്തിൽ ഇത് ഞങ്ങൾക്ക് ഒരു നേട്ടവും നൽകുന്നില്ല നമുക്ക് k വലിപ്പവും k പ്രൈമിന്റെ വലുപ്പവും ഏകദേശം പകുതി വലുപ്പമുണ്ടെന്ന് കരുതുക അതിനാൽ മൊത്തത്തിലുള്ള സെറ്റിന്റെ പകുതിയോളം വലുപ്പമുള്ള രണ്ട് ഘടകങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ k അല്ലെങ്കിൽ k പ്രൈമിനെ മറ്റൊരു സെറ്റിലേക്ക് ലയിപ്പിച്ചാലും പകുതിയോളം മൂല്യങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇത് r ഓർഡർ n ഓപ്പറേഷൻ ആണ് അതിനാൽ ഫാൻസി ഒന്നും ചെയ്യാതെ ഞങ്ങൾ എല്ലാ വെർട്ടെക്സുകളും സ്കാൻ ചെയ്യുമെന്ന് നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു വാസ്തവത്തിൽ ഏറ്റവും മോശമായ സന്ദർഭം ഓരോ അപ്ഡേറ്റിന്റെയും ക്രമം സമയമായി എടുക്കും എന്നതാണ് ഇപ്പോൾ ഓർഡർ n ടൈം എടുക്കുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും മോശം സാഹചര്യമുണ്ടെന്ന് അത് പറയുന്നു അതിനാൽ n 2 എന്നത് ഓർഡർ n ആണ് അതിനാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഞങ്ങൾ നേടിയത് വ്യക്തിഗത ലയന പ്രവർത്തനങ്ങളുടെ നിബന്ധനകൾക്കായി കണക്കാക്കാനാവില്ല ലയനങ്ങളുടെ പഞ്ചിന്റെ എളിമയുടെ ഫലം നമ്മൾ നോക്കേണ്ടതുണ്ട് അതിനാൽ കൂടുതൽ സൂക്ഷ്മമായ അക്കൌണ്ടിംഗ് ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തനങ്ങൾക്ക് കണക്ക് നൽകണം അതിനാൽ വിശാലമായ ആദ്യ തിരയലിൽ ഞങ്ങൾ അടുത്തുള്ള പട്ടിക ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം ചില അക്ക അക്കൌണ്ടിംഗ് ചെയ്തുവെന്ന് ഓർക്കുക എല്ലാ ലൂപ്പുകളിലുടനീളം ഞങ്ങൾ പറഞ്ഞു ഓരോ അറ്റവും കൃത്യമായി രണ്ട് തവണ കാണും അതിനാൽ എല്ലാ ലൂപ്പുകളിലും ഞങ്ങൾ ഓർഡർ n ടൈം എടുക്കുന്നു അതിനാൽ ഒരു ലയനമല്ല മറിച്ച് അവർ x എടുക്കുന്ന എല്ലാ ലയനങ്ങളും ഞങ്ങൾ ശ്രദ്ധാപൂർവ്വം സമാനമായ അക്കൌണ്ടിംഗ് ചെയ്യേണ്ടതുണ്ട് ചെറിയ സെറ്റ് വലിയ സെറ്റിലേക്ക് ലയിപ്പിക്കുന്നതിന്റെ പ്രഭാവം ഞാൻ വ്യക്തിഗത ഘടകത്തിൽ നോക്കുകയാണെങ്കിൽ ഘടകം മാറിയാൽ അത് ലേബൽ ചെയ്തിരിക്കുന്നു ഘടകം നിലവിൽ k ആണെങ്കിൽ അത് k പ്രൈം ആയിത്തീരുന്നുവെങ്കിൽ പുതിയ സെറ്റ് കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും വോട്ടുകൾ കാരണം ആണ് അതിനാൽ ഞാൻ k സജ്ജമാക്കിയിട്ടുണ്ടെന്നും അതിൽ ഒരു മൂലകം ഉണ്ടെന്നും എനിക്ക് മറ്റൊരു സെറ്റ് k പ്രൈം ഉണ്ടെന്നും കരുതുക തുടർന്ന് ഇവയെ രണ്ട് സിംഗിൾ സെറ്റുകളായി ലയിപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു ഇപ്പോൾ പുതിയ സെറ്റിനെ k പ്രൈം എന്ന് വിളിക്കുന്നത് തുടരുകയാണെങ്കിൽ അതിനർത്ഥം k പ്രൈമിനേക്കാൾ മോശമാണ് k അല്ലെങ്കിൽ നിങ്ങൾക്ക് തുല്യമായി കുറവാണെന്ന് പറയാൻ കഴിയുമെന്നത് അർത്ഥമാക്കുന്നില്ല അതിനാൽ k പ്രൈമിനേക്കാൾ ചെറുതായതിനാൽ അതിന്റെ അർത്ഥം ഞാൻ പഴയ സെറ്റിന്റെ ഇരട്ടി വലുപ്പമുള്ള k പ്ലസ് k നോക്കുകയാണെങ്കിൽ ഇത് പകരം വയ്ക്കുന്നതിലൂടെ k പ്ലസ് k പ്രൈമിനേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കും അതിനാൽ ഇത് പുതിയ സെറ്റിന്റെ വലുപ്പമാണ് k പ്ലസ് k പ്രൈം ഞാൻ നിർമ്മിക്കുന്ന പുതിയ സെറ്റിന്റെ വലുപ്പമാണ് ഇത് പഴയ വലുപ്പത്തിന്റെ ഇരട്ടി വലുപ്പമെങ്കിലും ആകും അതിനാൽ ഒരു മൂലകത്തിന്റെ സെറ്റ് ലേബലിംഗ് ഘടകത്തിന്റെ പേര് മാറുമ്പോഴെല്ലാം പുതിയ സെറ്റ് കുറഞ്ഞത് ഇരട്ടി വലുപ്പത്തിൽ പെടുന്നു ഇപ്പോൾ എനിക്ക് എല്ലാ ഘടകങ്ങളും വെവ്വേറെ പാർട്ടീഷനുകളിൽ ഉള്ളപ്പോൾ പ്രാരംഭ അവസ്ഥയിൽ നിന്ന് ആരംഭിക്കുന്ന m യൂണിയൻ പ്രവർത്തനങ്ങളുടെ ചില ക്രമങ്ങൾ നോക്കാം അതിനാൽ ഓരോ പ്രവർത്തനത്തിലും എന്ത് സംഭവിക്കാം ഒരുപക്ഷേ ഞാൻ രണ്ട് ഘടകങ്ങൾ സംയോജിപ്പിക്കുന്നു ഇപ്പോൾ അടുത്ത തവണ ഞാൻ ഇവ രണ്ടും സംയോജിപ്പിക്കുകയാണെങ്കിൽ രണ്ട് പ്രവർത്തനങ്ങളിൽ ഞാൻ മൂന്ന് ഘടകങ്ങളെ മാത്രമേ ബാധിക്കുകയുള്ളൂ അതിനാൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ ഞാൻ ഇത് പ്രത്യേകം ചെയ്യാൻ തുടങ്ങിയാൽ ഓരോ തവണയും ഒരു ഓപ്പറേഷനിൽ ഞാൻ അത് സ്വീകരിക്കും മറ്റ് പ്രവർത്തനങ്ങളിൽ ഇത് കൂടുതൽ ബാധിക്കും അതിനാൽ m പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണിക്ക് ശേഷം 2 മീറ്റർ മൂലകങ്ങൾക്ക് തങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന രണ്ടോ ഘടകമോ ഉള്ളപ്പോൾ പ്രാരംഭ അവസ്ഥയിൽ നിന്ന് സ്റ്റാറ്റസ് മാറ്റം സംഭവിച്ചു അതിനർത്ഥം എന്റെ യൂണിയൻ പ്രവർത്തനങ്ങൾ 2 മീറ്റർ ഘടകങ്ങളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്നാണ് ഇതിനർത്ഥം ഘടകമെന്ന നിലയിൽ 2 മീറ്ററിൽ കൂടുതൽ വലുതായിരിക്കരുത് കാരണം ഒരു ഘടകത്തിലേക്ക് പ്രവേശിക്കാൻ എന്തെങ്കിലും മാറ്റണം 2 മീറ്റർ മൂലകങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ബാധകമാക്കാൻ അനുവാദമുള്ളൂ m യൂണിയൻ പ്രവർത്തനത്തിനു ശേഷം ഏതെങ്കിലും ഘടകത്തിന്റെ വലിപ്പം പരമാവധി 2 m എന്നാൽ ഒരു വലിപ്പം എങ്ങനെ വളരും ഇത് 1 2 4 ആയി പോകുന്നു കാരണം ഇത് m വരെ ഇരട്ടിയാകുന്നു അതിനാൽ ലോഗ് m സ്റ്റെപ്പുകൾക്ക് ശേഷം ഞാൻ 1 ലോഗ് m തവണ ഇരട്ടിയാക്കിയാൽ എനിക്ക് m ലഭിക്കും അതിനാൽ ഒരു ഘടകത്തെ നിശ്ചിതമായി പുനർനാമകരണം ചെയ്യാൻ കഴിയും ക്ഷമിക്കണം ഒരു നിശ്ചിത ഘടകം മിക്ക ലോഗ് m സമയങ്ങളിലും പുനർനാമകരണം ചെയ്യാൻ കഴിയും അതിനാൽ ഒരു മൂലകമാകുന്നതിന്റെ എണ്ണം ഇരട്ടിയാക്കുന്നതിനാൽ ഇത് ഒരു പുതിയ സെറ്റിലേക്ക് നീക്കാൻ കഴിയും ഇത് നിയന്ത്രിതമാണ് കാരണം ഓരോ തവണയും അതിന്റെ ഘടകത്തിന്റെ സൈറ്റിന്റെ വലുപ്പം ഇരട്ടിയാകും കൂടാതെ അത് ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഘടകത്തിന് ഒരു പരിധിയുണ്ട് അതിനാൽ നമ്മൾ മൊത്തം ചില യൂണിയൻ പ്രവർത്തനങ്ങൾ നോക്കിയാൽ 2 m അതിനാൽ ഓർഡർ m ഘടകങ്ങൾക്ക് ഘടകം അപ്ഡേറ്റുചെയ്തു ഓരോന്നും മിക്ക ലോഗ് m ടൈമിലും അപ്ഡേറ്റുചെയ്തു ഓർക്കുക ഞങ്ങൾ ഘടകങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു ഘടകത്തെയും ഞങ്ങൾ സ്പർശിക്കില്ല ഇത് പഴയ സജ്ജീകരണമല്ല ലിസ്റ്റ് അംഗങ്ങൾ ഉള്ളതിനാൽ ഏതാണ് അല്ല എന്ന് തീരുമാനിക്കുന്നതിന് നമ്മൾ എല്ലാ നോഡുകളും 1 മുതൽ n വരെ സ്കാൻ ചെയ്യണം ഘടകം k അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി ആ ഘടകങ്ങൾ മാത്രം അപ്ഡേറ്റ് ചെയ്യും അതിനാൽ ഞങ്ങൾ മാറ്റുന്ന ഘടകങ്ങളിൽ മാത്രമേ ഞങ്ങൾ സ്പർശിക്കുകയുള്ളൂ അതിനാൽ m ഘടകങ്ങൾ ലോഗ് m ടൈംസ് മാറ്റുന്നു അതിനാൽ മൊത്തത്തിൽ നമുക്ക് മാറ്റത്തിന്റെ m ലോഗ് m ഘട്ടങ്ങളുണ്ട് അതിനാൽ ഞങ്ങൾ m യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ m എടുക്കും ഓരോരുത്തരും നേരിട്ട് m ലോഗ് m ടൈം എടുക്കുന്നു എന്നല്ല മറിച്ച് യൂണിയൻ പ്രവർത്തനങ്ങളുടെ മൊത്തം ആകെത്തുക എം ലോഗ് m മാത്രമാണ് നിങ്ങൾ പറയുന്ന വിധത്തിൽ ഇത് നമുക്ക് ശരാശരിയാക്കാം അതിനാൽ മൊത്തത്തിൽ m പ്രവർത്തനങ്ങൾ m ലോഗ് m ആയതിനാൽ ശരാശരി ചില ചെറിയവ വലുതാണെങ്കിലും അവർ ലോഗ് എം പ്രവർത്തനങ്ങൾ എടുക്കുന്നു അതിനാൽ ഇത് ഒരു വ്യത്യസ്ത തരം വിശകലനമാണ് ഇത് ഞങ്ങൾ നടത്തിയ വിശകലനമല്ല ഉദാഹരണത്തിന് അഡ്ജറേഷൻ സീൽ b ഓഫ് s ആണ് അവിടെ മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങൾ എല്ലാം ചേർത്തു ഇവിടെയും ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നു പക്ഷേ ഞങ്ങളും ഒരു തരത്തിൽ പുറകോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ വളരെയധികം പ്രവർത്തനങ്ങളുണ്ടെന്നും ഈ പ്രവർത്തനങ്ങളിലുടനീളം എടുത്ത മൊത്തം സമയവും വളരെയധികം പറയുന്നു ഞങ്ങൾ വിഭജിച്ച് മൊത്തം ചെലവിന്റെ ഓരോ വിഹിതവും നൽകുന്നു അതിനാൽ ഓരോ പ്രവർത്തനത്തിലും ലോഗ് m ടൈം എടുക്കുന്നില്ലെങ്കിലും ഇത് ഒരു നൽകുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം യൂണിയൻ പ്രവർത്തനത്തിന്റെ ലോഗ് m ഇമ്പ്ളേമെന്റഷന് അതിനാൽ ഇത്തരത്തിലുള്ള വിശകലനത്തെ വിളിക്കുന്നു അമോർടൈസ്ഡ് കോംപ്ളെക്സിറ്റി യഥാർത്ഥത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ നിന്നുള്ള അക്കൌണ്ടിങ്ങിൽ നിന്നാണ് ഈ പദം വരുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു നിശ്ചിത ചിലവ് ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ബിസിനസ്സ് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ക്രമീകരിക്കേണ്ടി വന്നേക്കാം നിങ്ങൾക്ക് ഒരു ഓഫീസ് സജ്ജീകരിക്കാം എന്നിട്ട് ഇപ്പോൾ ഒരെണ്ണം നൽകാനുള്ള എന്റെ ചിലവ് വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഓഫീസ് സജ്ജമാക്കാൻ എനിക്ക് ധാരാളം ജോലി ചെയ്യാനുണ്ട് അതിനാൽ വിപുലമായ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മൊത്തം ജീവിത സമയം നോക്കുക ഈ കോഴ്സ് മുഴുവൻ കാര്യങ്ങളിലും വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുക എന്നതാണ് അതിനാൽ ഇത് അമോർടൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്നു അവിടെ നിങ്ങൾ f ന്റെ നിശ്ചിത ചിലവ് എടുക്കുന്നു നിശ്ചിത ഉപകരണങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു അത് ഉപയോഗിക്കപ്പെടുമ്പോൾ മുഴുവൻ ജീവിതത്തിലുടനീളം വിഭജിക്കപ്പെടും അതിനാൽ ഇവിടെ അതേ രീതിയിൽ ഞങ്ങൾ ഒരു തരത്തിൽ അമോർട്ടൈസ്ഡ് വിശകലനം നടത്തുകയാണ് എല്ലാ m യൂണിയൻ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ എത്ര സമയം എടുക്കുന്നുവെന്ന് ഞങ്ങൾ കണക്കാക്കുന്നു തുടർന്ന് ഓരോന്നും ഏകദേശം ലോഗ് n ടൈം എടുത്തു പ്രവർത്തിക്കുന്നു യൂണിയൻ ഫൈൻഡ് ഡാറ്റാ സ്ട്രക്ച്ചറും ക്രുസ്കലിന്റെ അൽഗോരിതവും കണ്ടെത്തുന്നതിനായി എങ്ങനെ ഉപയോഗിക്കാം ഓർക്കുക ക്രൂസ്കലിന്റെ അൽഗോരിതം തുടക്കത്തിൽ എഡ്ജസ് അടുക്കുക അതിനാൽ ഞങ്ങൾക്ക് u ഉം രണ്ട് e m ഉം ആരോഹണ വിലയും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ നിസ്സാരമായ പാർട്ടീഷനുകളിൽ ആരംഭിക്കുന്നു അതിനാൽ ഞങ്ങളുടെ സെറ്റ് വെർട്ടിസ്സ് ഞങ്ങൾ യൂണിയൻ ഫൈൻഡ് കണ്ടെത്തുന്നു അതിനാൽ ഓരോ j വെർട്ടെക്സുകളും ലേബൽ j ആണ് അതിനാൽ ഞങ്ങൾക്ക് കൃത്യമായി n വിഭജനം ഉണ്ട് ഓരോ വെർട്ടെക്സുകളും അടങ്ങുന്ന ഒന്ന് ഇപ്പോൾ നമ്മൾ നോക്കുന്ന കറന്റ് എഡ്ജ് ചേർക്കേണ്ടതുണ്ട് അത് ഒരു സൈക്കിൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ സെൻറ് പോയിന്റ് വ്യത്യസ്ത ഘടകങ്ങളാണെന്ന് പറയുന്നത് പോലെയാണ് ഇത് ഒരു എഡ്ജ് യുവിക്ക് ഞാൻ u കണ്ടെത്തി v കണ്ടെത്തുകയാണെങ്കിൽ u നെ കണ്ടെത്തുന്നത് v കണ്ടുപിടിക്കുന്നതിന് തുല്യമല്ല പക്ഷെ u കണ്ടെത്തിയാൽ v കണ്ടെത്തുന്നതിന് തുല്യമല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതുണ്ട് ഒരു ലയനം അതിനാൽ എനിക്ക് ഈ രണ്ട് ഘടകങ്ങളുടെയും യൂണിയൻ ആവശ്യമാണ് ഫൈൻഡ് u v എന്നിവ കണ്ടെത്തുന്നതിലൂടെ എനിക്ക് അവരുടെ ഘടകങ്ങളുടെ പേരുകൾ ലഭിക്കും അതിനാൽ ഇത് u ഉൾക്കൊള്ളുന്ന u ഘടകമാണ് ഇത് v അടങ്ങുന്ന k പ്രൈം ഘടകം ആയിരിക്കും ഞാൻ തീർച്ചയായും ഒരു യൂണിയൻ ചെയ്യുന്നു കൂടാതെ u ഉം v യും ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഘടകം എനിക്ക് ലഭിച്ചു ആ ട്രീ യുടെ n മൈനസ് 1 എഡ്ജ് മാത്രമുള്ളതിനാൽ സ്പാനിങ് ട്രീ കണ്ടെത്താൻ മൊത്തം സെറ്റിൽ നിന്ന് ഞങ്ങൾ n മൈനസ് 1 എഡ്ജ് മാത്രമേ ചേർക്കൂ അതിനാൽ എല്ലാറ്റിനും മുകളിൽ വരാൻ ഞങ്ങൾക്ക് ഓർഡർ n യൂണിയൻ പ്രവർത്തനങ്ങൾ ഉണ്ട് v k യും ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും m പ്രവർത്തനങ്ങൾക്ക് m ലോഗ് m എടുക്കും അതിനാൽ m പ്രവർത്തനങ്ങൾക്ക് n log n ആണെങ്കിൽ നമുക്ക് പാർട്ടീഷനുകൾ പരിപാലിക്കുകയും അവയെ m n log n എടുക്കുന്ന എല്ലാത്തിലും ചേർക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ എഡ്ജ് ക്രമീകരിക്കണം അതിനാൽ അത് m ലോഗ് m എടുക്കുന്നു എന്നാൽ ഞങ്ങൾ ക്രൂസ്കലിനെ വിശദമായി നോക്കുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ m പരമാവധി n ചതുരത്തിലായതിനാൽ ലോഗ് m പരമാവധി 2 ലോഗ് n ആണെന്ന് നമുക്കറിയാം അതിനാൽ മാഗ്നിറ്റ്യൂഡ് ലോഗ് m ലോഗ് n എന്നിവയുടെ ഓർഡറുകൾ ഒരേ തലത്തിൽ അതിനാൽ നമുക്ക് m ലോഗ് n m പോലെ തന്നെ m log n m നോക്കാം അതിനാൽ മൊത്തം ചെലവ് ഇപ്പോൾ m m log n പ്ലസ് n log n ലേക്ക് വരുന്നു അതിനാൽ നമുക്ക് m പ്ലസ് n ലോഗ് n ലഭിക്കും പ്രിമിന്റെ അൽഗോരിതത്തിന് ഞങ്ങൾ ക്ലെയിം ചെയ്ത സങ്കീർണ്ണത നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഹീപ്സ് ഉപയോഗിച്ച് ഘടനയിൽ പ്രൈമുകൾക്ക് സമാനമായ ഈ അൽഗോരിതങ്ങൾക്ക് ആ തരം m പ്ലസ് n രണ്ടും ഉള്ളവർ ഏറ്റവും കുറഞ്ഞ ദൂരം കണക്കുകൂട്ടാൻ ഞങ്ങൾ ഹീപ്സ് ഉപയോഗിക്കുന്നു അതിനാൽ ക്രുസ്കലിന്റെ അൽഗോരിതം യൂണിയൻ ഫൈൻഡ് ഡാറ്റ സ്ട്രക്ച്ചറും പ്രധാനമായും ഹീപ്സ് ഉപയോഗിക്കുന്ന പ്രിമിന്റെ അൽഗോരിതം പോലെ തന്നെ സങ്കീർണ്ണത കണ്ടെത്തുന്നു നമ്മൾ കണ്ടത് ചുരുക്കിപ്പറഞ്ഞാൽ ഓരോ ഘടകങ്ങളിലെയും വേർട്കസുകൾക് പേരിടുന്നതിന് ഘടകങ്ങളിലേക്കും പട്ടികയുടെ നിരയിലേക്കും യൂണിയൻ ഫൈൻഡ് നടപ്പിലാക്കാൻ കഴിയും കൂടാതെ ഓരോ ഘടകത്തിന്റെയും വലുപ്പം ട്രാക്കുചെയ്യാൻ മറ്റൊരു ശ്രേണി ഇതുപയോഗിച്ച് വേർതിരിക്കാത്ത വ്യക്തിഗത ഘടക പാർട്ടീഷനുകളുടെ യൂണിയൻ ഫൈൻഡ് ഡാറ്റ സ്ട്രക്ച്ചർ കണ്ടെത്തുന്നതിനുള്ള പ്രാരംഭ ഘട്ടം ഓർഡർ n ആണ് കണ്ടെത്തുന്നതിന് കോൺസ്റ്റന്റ് ടൈം എടുക്കുന്നു m പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണിയുടെ സങ്കീർണ്ണത m ലോഗ് n ആണ് അതിനാൽ ഓരോ യൂണിയൻ പ്രവർത്തനവും പ്രാരംഭം മുതൽ ആരംഭിക്കുന്ന സെർച്ച് m പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണിക്ക് ലോഗ് m ടൈം എടുക്കുന്നതായി നമുക്ക് ചിന്തിക്കാം